ഇന്നത്തെ ലെക്ചർ നമുക്ക് മാക്സ്വെല്ലിന്റെ സമവാക്യത്തിലൂടെ Maxwells equation ആരംഭിക്കാം ഈ കോഴ്സിലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിങ്ങൾ എല്ലാവരും ഇലക്ട്രോമഗ്നെറ്റിക്സിനെ കുറിച് മനസിലാക്കിയതാണ് അതിനാൽ ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ഓർമപ്പെടുത്തൽ ആയിരിക്കും ശെരി നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന വിഷയം ആരംഭിക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യത്തിലൂടെ ആണ് ശേഷം നമ്മൾ ബൌണ്ടറി കണ്ടിഷൻസ്ചർച്ച ചെയ്യും നമ്മൾ ഇലക്ക്ട്രോ മഗ്നെറ്റിക്സ് ഇൽ കണ്ടതാണ് ഒരു പ്രോബ്ലം പരിഹരിക്കാൻ നമുക്ക് മാക്സ്വെല്ലിന്റെ സമവാക്യം മാത്രം അറിഞ്ഞാൽ പോരാ മറിച്ചു ബൌണ്ടറി കണ്ടിഷൻസ്കൂടി അറിയേണ്ടതുണ്ട് ആയതിനാൽ ഇവിടെ ഈ രണ്ട് എസ്സെൻഷ്യൽസിനും ഒപ്പം പവർ പോയിന്റിംഗ് വെക്ടർ എന്നിവയും മറ്റു chila സിദ്ധാന്തങ്ങളും അറിഞ്ഞിരിക്കണം ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ അണ്ടർ ഗ്രാജ്വെറ്റ് ക്ലാസ്സുകളിലും മറ്റും പഠിച്ചതൊ അല്ലാത്തതോ ആയ യൂണിക്ക്നെസ്സ് തുല്യത എന്നിവയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളും ആവാം അതിനാൽ ഈ ഒരു കോഴ്സ് ലും ലെക്ചറിലും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഫിസികൽ ക്വാണ്ടിട്ടി കറന്റ്സ് സമവാക്യങ്ങളും ഉണ്ടാകും ഇവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഗണിതപരമായി കൂടുതൽ പവർ ലഭിക്കുന്ന രീതിയിൽ ജനറലൈസ് ചെയ്യാനും ശ്രമിക്കുന്നതാണ് ആ സമവാക്യങ്ങൾക്ക് എപ്പോഴും ഒരു ഭൌതികമായ അർത്ഥം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇത് മാത്തമാറ്റിക്കൽ പവർ നമുക്ക് ഒരു ഇക്വേഷൻ പൂർത്തിയാക്കാനായി സഹായിക്കുന്നു ഇതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് തുല്യത സിദ്ധാന്തത്തിൽ കാണാം എങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാക്സ്വെൽ സമവാക്യത്തിൽ തുടങ്ങാം നമ്മളിവിടെ നാലു ഉദാഹരണങ്ങളിലൂടെ ഇവിടെ നമ്മൾ മാക്സ്വെൽ ഹേഡ്സ് ഫാരഡേആംബിയർ എന്നിവരുടെ വളരെയധികം ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്ക് മൂല്യം നൽകുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വോൾട്ടേജ് കരണ്ടും ആൾക്കാർ ഉണ്ട് അല്ലേ എന്നാൽ വളരെയധികം കോംപ്ലസ്ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അളക്കാറുണ്ടോ അതിന് മാത്തമാറ്റിക്കൽ അബ്സ്ട്രാകഷൻവേണം അതിനാൽ ഞാൻ പറയുകയാണ് ഇവിടെ യഥാർത്ഥ മൂല്യമുള്ള ഉള്ള ഫിസിക്കൽ ക്വാളിറ്റീസ് E F പോലുള്ള ചില ചിന്നങ്ങൾ ഉപയോഗിച്ചു അളക്കുന്നു അതിനാൽ ഇവ യഥാർത്ഥ അളവുകളാണെന്നും മുൻ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾ കണ്ടത് പോലെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നീല ഫോണ്ടിലെ പദങ്ങളില്ലാതെ ഈ നാലെണ്ണമായിരുന്നു കറുപ്പ് ഫോണ്ടിലുള്ള എല്ലാം നമുക്കെല്ലാവർക്കും ഇതിനകം അറിയാം അതിനാൽ കാന്തികക്ഷേത്രത്തിന്റെ മാറ്റത്തിന്റെ തോത് അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഉണ്ട് അതെല്ലാം നമുക്ക് കൃത്യമായി അറിയാം അതിനാൽ ഞാൻ ഈ നാലെണ്ണം നോക്കിയാൽ നീല ഫോണ്ടുകളില്ലാത്ത ആദ്യത്തെ നാല് സമവാക്യങ്ങൾ ഈ സമവാക്യങ്ങളിൽ ഒരുതരം അസമമിതിയുണ്ട് കാരണം ഞാൻ സൂചിപ്പിക്കുന്നത് വൈദ്യുത മണ്ഡലത്തിന്റെ ചുരുളിന്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ കാന്തികക്ഷേത്രത്തിന്റെ മാറ്റത്തിന്റെ നിരക്ക് ഉണ്ട് മറ്റൊരു പദവുമില്ല അതേസമയം രണ്ടാമത്തെ സമവാക്യത്തിൽ വൈദ്യുത മണ്ഡലത്തിന് ആനുപാതികമായ മാറ്റത്തിന്റെ നിരക്ക് ഉണ്ട് അതിനാൽ അതിൽ ഒരുതരം അസമമിതിയുണ്ട് അതിനാൽ ഈ അസമമിതി പരിഹരിക്കുന്നതിന് പിന്നീട് നമുക്ക് കുറച്ച് ഗണിതശാസ്ത്രപരമായ ശക്തി നൽകുന്നതിന് ഞങ്ങൾ ചെയ്യുന്നത് വൈദ്യുത മണ്ഡലവും കാന്തികക്ഷേത്രവും തമ്മിലുള്ള ഈ ബന്ധങ്ങളെ സമമിതിയാക്കാൻ അളവുകൾ കൂട്ടിച്ചേർക്കുക എന്നതാണ് ആ അളവുകൾ എന്തൊക്കെയാണ് J ഒരു വൈദ്യുത പ്രവാഹമായിരുന്നെങ്കിൽ M ആണ് വിദ്യാർത്ഥി കാന്തിക കാന്തിക പ്രവാഹം വൈദ്യുത ചാർജാണെങ്കിൽ കാന്തിക ചാർജ് ശരി ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇവ ഭൌതിക അളവുകളല്ല ശരി കുറഞ്ഞത് കാന്തിക ചാർജ് ഒരു ഭൌതിക അളവ് ആയിരിക്കണമെന്നില്ല എന്നാൽ കാന്തിക ചാർജ് നിലനിൽക്കാത്തതിന് സൈദ്ധാന്തിക കാരണങ്ങളൊന്നുമില്ല അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും അത് കണ്ടെത്തുകയാണെങ്കിൽ ഒരു നൊബേൽ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു അതിനാൽ അത് ഏകദേശം അതിനാൽ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ശരിയുമായി പ്രവർത്തിക്കും വാസ്തവത്തിൽ കാന്തിക ചാർജ് ഉണ്ടായിരിക്കണമെന്ന് ഗണിതശാസ്ത്രപരമായി കാണിക്കുന്ന തരത്തിലുള്ള ഡിറാക്കിന്റെ ഒരു പേപ്പർ ഉണ്ട് പക്ഷേ ഞങ്ങൾ അത് ശരിയാണെന്ന് കണ്ടെത്തിയില്ല അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾക്കൊപ്പം മറ്റൊരു സമവാക്യം ഉപയോഗിക്കുന്നു അത് ചാർജിനുള്ള തുടർച്ച ബന്ധമാണ് അതിനാൽ നിങ്ങൾ കരുതുന്നുണ്ടോ അതിനാൽ ഇതാണ് ഞാൻ ഇവിടെ താഴെ എഴുതിയിരിക്കുന്ന ഈ സമവാക്യം ഈ സമവാക്യം ആദ്യത്തെ നാല് സമവാക്യങ്ങളിൽ നിന്ന് സ്വതന്ത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് ശരിയായി ഉരുത്തിരിഞ്ഞു വരാം നമ്മൾ അത് എങ്ങനെ ഉരുത്തിരിയാം വിദ്യാർത്ഥി രണ്ടാമത്തെ സമവാക്യത്തിന്റെ വ്യതിചലനം എടുക്കുക രണ്ടാമത്തെ സമവാക്യത്തിന്റെ വ്യതിചലനം ശരിയായി എടുക്കുക അതിനാൽ ഞാൻ ഇവിടെ രണ്ടാമത്തെ സമവാക്യത്തിന്റെ വ്യതിചലനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ സമവാക്യം മുഴുവനും ചെയ്താൽ അതിനാൽ ഏതൊരു വെക്റ്റർ H നും ഇത് ഐഡന്റിറ്റി തുല്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിദ്യാർത്ഥി 0 അങ്ങനെയെങ്കിൽ ഇടത് വശം 0 ആയി മാറുന്നതും വലതുവശത്ത് നിലവിലെ പദവും ഇവിടെയും ഒപ്പം നമുക്ക് ഞങ്ങളുടെ കൂലോംബിന്റെ സമവാക്യം ഉപയോഗിക്കുകയും വലത്തേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യാം അതിനാൽ ഇതാണ് നിങ്ങളുടെ തുടർച്ച സമവാക്യം ഇത് സൌകര്യാർത്ഥം വെവ്വേറെ എഴുതിയതാണ് പക്ഷേ ഇത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്നും വെക്റ്റർ കാൽക്കുലസിൽ നിന്നും വന്നതാണ് ശരി അതിനാൽ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചുരുക്കിപ്പറയാൻ ഗണിതശാസ്ത്രപരമായ സൌകര്യത്തിനും ഒരുതരം സമമിതി അവകാശം നൽകുന്നതിനുമായി ഞങ്ങൾ ഈ രണ്ട് പുതിയ അളവുകൾ ഇവിടെ അവതരിപ്പിച്ചു ഞാൻ വൈദ്യുതവും കാന്തികവും കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ വൈദ്യുത മണ്ഡലവും കാന്തിക മണ്ഡലവും പരസ്പരം മാറ്റാവുന്നതാണ് എനിക്ക് കാന്തികവും വൈദ്യുത പ്രവാഹങ്ങളും കാന്തികവും വൈദ്യുത ചാർജ്ജും പരസ്പരം മാറ്റേണ്ടതുണ്ട് ഞാൻ ഇത് ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമായി മാറ്റുമ്പോൾ ഞാൻ പറയുന്നത് ഭൌതികമല്ലാത്ത അളവുകളെക്കുറിച്ചല്ലെന്ന് ഞാൻ ഉറപ്പാക്കും അതിനാൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു അധിക ഘട്ടം ഞങ്ങൾ ശരിയാക്കും ഈ പ്രോപ്പർട്ടികൾ ഞങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ബാക്കിയുള്ള കോഴ്സിൽ വ്യക്തമാകും അതിനാൽ അവ നിങ്ങളുടെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളാണ് അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം ഈ കോഴ്സിൽ ഞങ്ങൾ കൂടുതൽ സങ്കീർണ്ണമായ കണക്കുകൂട്ടലുകൾ നടത്തും എന്നാൽ നമുക്ക് ലളിതമായ ഒരു തരംഗ ഉദാഹരണം എടുക്കാം അതിനാൽ ഞാൻ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ വാക്വം വാക്വം എന്നിവയിൽ എഴുതിയിട്ടുണ്ട് അതിന് ഉറവിടങ്ങളോ ചാർജുകളോ ഇല്ല ഉറവിടങ്ങളൊന്നും അർത്ഥമാക്കുന്നത് 0 ആണ് ഇല്ല കൂടാതെ ചാർജുകളും 0 കറന്റ് 0 ശരിയാണ് അതിനാൽ രണ്ട് ലളിതമായ സമവാക്യങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സമവാക്യം നൽകുന്നതിന് അവയെ സംയോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ നാല് സമവാക്യങ്ങൾ നമ്മൾ എല്ലാവരും മുമ്പ് കണ്ടതാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് അധികമുണ്ട് അത് D E B H എന്നിവ തമ്മിലുള്ള ബന്ധം പറയുന്നു അതിന്റെ വാക്വം ആയതിനാൽ അത് വളരെ ലളിതമാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒട്ടും ബുദ്ധിമുട്ടുള്ളതല്ല അതിനാൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള ആദ്യത്തെ രണ്ട് സമവാക്യങ്ങളിൽ നിന്ന് വേരിയബിളുകളിൽ ഒന്ന് ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ രണ്ട് സമവാക്യങ്ങളും രണ്ട് വേരിയബിളുകളും ഉള്ളതുപോലെയാണ് ഇത് രണ്ട് വേരിയബിളുകൾ ഇവയാണ് ഞാൻ ഈ ആദ്യ രണ്ട് സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സമവാക്യങ്ങളിലെ രണ്ട് വേരിയബിളുകൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥി R T ഇല്ല r ഉം t ഉം ഞാൻ ഞങ്ങളോട് പറയുന്ന സമവാക്യം സ്ഥലത്തിലും സമയത്തിലും ചില ഘട്ടങ്ങളിൽ ശരിയാണ് എന്നാൽ സ്ഥലത്തിന്റെയും സമയത്തിന്റെയും ഒരു പ്രത്യേക ഘട്ടത്തിൽ എനിക്കറിയാത്ത 2 വേരിയബിളുകൾ ഏതൊക്കെയാണ് ഇ എച്ച് അല്ലെങ്കിൽ ഇ ബി ഇലക്ട്രിക് ഫീൽഡ് കാന്തിക മണ്ഡലം ഇതാണ് എനിക്ക് അറിയാത്തത് ഞാൻ ശരിയായി കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഏതൊരു സെം ഉദാഹരണത്തിന്റെയും പൊതുവായ ആശയം അതായിരിക്കും എനിക്ക് വൈദ്യുത മണ്ഡലം കാന്തികക്ഷേത്രം ചില ചാർജ് വിതരണം നിലവിലെ വിതരണം അതിർത്തി വ്യവസ്ഥകൾ എന്നിവ കണ്ടെത്തണം അതിനാൽ എനിക്ക് 2 വേരിയബിളുകളിൽ രണ്ട് സമവാക്യങ്ങളുണ്ട് അതിനാൽ തത്വത്തിൽ എനിക്ക് അവ ശരിയായി പരിഹരിക്കാൻ കഴിയണം അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെക്റ്റർ കാൽക്കുലസിൽ നിന്നുള്ള ചില പ്രോപ്പർട്ടികൾ ഞങ്ങൾ ഉപയോഗിക്കും അതിനാൽ നമുക്ക് ഇവിടെ ആദ്യ സമവാക്യത്തിന്റെ ചുരുളൻ പറയാം അതിനാൽ ശരിയാണ് വെക്റ്റർ കാൽക്കുലസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല ബന്ധമുണ്ട് മതി ശരി അതാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് പദങ്ങളിൽ ഏതെങ്കിലും ഒരു പദമുണ്ടോ വിദ്യാർത്ഥി ആദ്യത്തേത് ലളിതമാക്കിയ ആദ്യ പദം കൂലോംബിന്റെ നിയമം ഉപയോഗിക്കുന്നത് ഇവിടെയാണ് കൂടാതെ D എന്നത് E യുമായി ഒരു സ്ഥിരാങ്കം കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ആകാൻ പോവുകയാണോ വിദ്യാർത്ഥി 0 0 ശരിയാണ് അതിനാൽ ഈ മുഴുവൻ പദവും 0 ശരിയാണ് അതിനാൽ ഞങ്ങൾ ഈ ആദ്യ ടേം കുറച്ചു അതിനാൽ ഇടതുഭാഗം ശരിയായി ഇത് ഒരു സ്കെയിലർ ആണോ അതോ വെക്റ്റർ ഇടത് വശമാണോ എന്ന് പെട്ടെന്ന് പരിശോധിക്കുക വിദ്യാർത്ഥി സ്കെലാർ ഈ പദപ്രയോഗം സ്കെയിലറോ വെക്ടറോ ആണോ അപ്പോൾ ഒരു വെക്റ്റർ എങ്ങനെ സ്കെയിലറിന് തുല്യമാകും അതിനാൽ ഇടത് വശം വ്യക്തമായും ഒരു വെക്ടറാണ് വലത് വശം അതിനാൽ ഒരു വെക്ടറും എന്തിനാണ് കാരണം ഈ വ്യക്തി ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ശരിയാകും അതിനാൽ ഈ ആൺകുട്ടികളിൽ ഓരോരുത്തരിലും ഓരോന്നായി പ്രവർത്തിക്കുകയും എനിക്ക് ഒരു വെക്റ്റർ ശരി നൽകുകയും ചെയ്യും ഒരു വെക്റ്ററിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സ്കെലാറിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ അത് വെക്റ്ററിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് ഒരു വെക്റ്റർ ആയിരിക്കും അതിനാൽ സ്കൂളിൽ ഞങ്ങൾ ഡൈമൻഷണൽ വിശകലനം ചെയ്യേണ്ടത് പോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ലളിതമായ പരിശോധനയാണിത് അതിനാൽ ഇവിടെയും ഇത് സമാനമാണ് അതിനാൽ എനിക്ക് ഇടതുവശത്തും ഒരു വെക്റ്റർ ഉണ്ട് എനിക്ക് വലതുവശത്തെ വലതുഭാഗം ലളിതമാക്കേണ്ടതുണ്ട് അതിനാൽ എനിക്ക് ഉണ്ട് അതിനാൽ ഞാൻ വലതുവശത്ത് ഒരു ചുരുളൻ കൂടി എടുക്കാൻ പോകുന്നു അതിനാൽ എനിക്ക് ഡെൽ ടി പ്രകാരം മൈനസ് ഡെൽ ഉണ്ടാകും ഡെൽ ക്രോസ് ഓപ്പറേറ്റർ ബഹിരാകാശത്ത് മാത്രമേ പ്രവർത്തിക്കൂ അതിനാൽ എനിക്ക് അത് സമയത്തിന്റെ ഡെറിവേറ്റീവിലുടനീളം എടുക്കാം അതിനാൽ ഞാൻ ഒരു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെ കൂടുതൽ ലളിതമാക്കും എന്താണെന്ന് എന്നോട് പറയുന്ന ഒരു ബന്ധം എനിക്കുണ്ടോ എന്നോട് പറയുന്ന ഒരു ബന്ധമുണ്ടോ അതെ B H തമ്മിൽ ബന്ധമുണ്ടോ അതിനാൽ ഇത് അങ്ങനെയാകും എനിക്ക് ഇത് ഇവിടെ ഉപയോഗിക്കാനാകുന്നത് പോലെ എഴുതാം അതിനാൽ ഇത് മൈനസ് ആയി മാറുന്നു ഇപ്പോൾ എനിക്കറിയാം ഇവിടെ ഈ സമവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ പദപ്രയോഗം മൈനസ് ആയി മാറും പിന്നെ എന്തുണ്ട് അതിനാൽ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒരു ഡെറിവേറ്റീവ് വരും അതിനാൽ ഇത് മാറുന്നു എനിക്ക് എന്താണ് അവശേഷിക്കുന്നത് ഇവിടെ വന്നതുപോലെ ഞാൻ പകരം വയ്ക്കുന്നു എനിക്ക് ഇവിടെ എന്താണ് അവശേഷിക്കുന്നത് വിദ്യാർത്ഥി ഇ ഇ കൃത്യമായി ശരിയാണ് അതിനാൽ എനിക്ക് ലഭിച്ചത് ഇത് വലതുവശത്താണ് അതിനാൽ ഇത് ഇവിടെ ഇടത് വശത്തിന് തുല്യമാണ് തുടർന്ന് ചതുരാകൃതിയിലുള്ള E OK അതിനാൽ ഞങ്ങൾ ഇത് പരിചിതമായ ഒരു ലളിതമായ രൂപത്തിൽ എഴുതാം നമുക്ക് ഈ വശം പറയാം നമുക്ക് ഒരു ഏകമാന ഉദാഹരണം എടുക്കാം അതായത് ഭൌതികശാസ്ത്രം ഒരു മാനത്തിൽ മാത്രം വ്യത്യാസപ്പെടുന്നു നമുക്ക് അളവ് x ആയി എടുക്കാം അതിനാൽ ആ സാഹചര്യത്തിൽ വൈദ്യുത മണ്ഡലം മുതലായവ x ന്റെ ഒരു പ്രവർത്തനം മാത്രമാണ് അതിനാൽ ഈ ഓപ്പറേറ്റർ x നെ സംബന്ധിച്ചിടത്തോളം ശരിയായതും ഭാഗികമായ ഡെറിവേറ്റീവും മാത്രമായി മാറും അതിനാൽ എനിക്ക് ഇതുവരെ കിട്ടിയത് ഞാൻ ലളിതമാക്കിയാൽ എനിക്ക് ലഭിക്കും നിങ്ങളിൽ പലർക്കും ഇത് അറിയാം ഇതിനെ തരംഗ സമവാക്യം ശരി എന്ന് വിളിക്കുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ തരംഗ സമവാക്യം എന്ന് വിളിക്കുന്നത് വിദ്യാർത്ഥി ഇത് ഒരു വിമാന തരംഗത്തെ വിവരിക്കുന്നു ഇത് ഒരു വിമാന തരംഗത്തെ വിവരിക്കുന്നു ഈ സമവാക്യത്തിന് എന്താണ് പരിഹാരം എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഉദാഹരണത്തിന് ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തിന് എഴുതണം തൊപ്പി ശരിയല്ല അതിനാൽ ഞാൻ ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x ൽ രണ്ട് ഡെറിവേറ്റീവുകൾ എനിക്ക് എന്ത് ലഭിക്കും ഞാൻ വലതുവശത്ത് തിരിച്ചെത്തും ചില സ്ഥിരാങ്കങ്ങൾ വരും അതിനാൽ എനിക്ക് ഇടതുവശത്ത് ലഭിക്കും വലതുവശത്ത് എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് E തിരികെ ഇവിടെ ലഭിക്കും വലതുവശത്ത് ഞാൻ സമയവുമായി ബന്ധപ്പെട്ട് രണ്ട് ഡെറിവേറ്റീവുകൾ എടുക്കും കോസ് പാപമായി മാറും കോസായി മാറും ഞാൻ തിരിച്ചുവരും അതിനാൽ ഇത് ഒമേഗ സ്ക്വയറായി സി സ്ക്വയർ ചെയ്ത് E വലത്തേക്ക് മടങ്ങും അതിനാൽ k ഒമേഗ സിക്ക് തുല്യമാണെങ്കിൽ ഈ വ്യക്തി ഒരു പരിഹാരമാണ് ഇത് കൃത്യമായി സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിന്റെ സമവാക്യമാണ് അപ്പോൾ ഈ ഉത്ഭവം വ്യക്തമാണോ അതിനാൽ ഞങ്ങൾ വളരെ ലളിതമായ കാര്യങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നു അവ നാലും ശരിയായി ഉപയോഗിച്ചു അവയിലൊന്ന് പോലും ഞങ്ങൾ ഉപേക്ഷിച്ചില്ല ഞങ്ങൾ ആ വസ്തുതയും ഡിയും ഇയും തമ്മിലുള്ള ബന്ധവും ഉപയോഗിക്കുന്നു ആ വസ്തുതയും ബിയും മയും തമ്മിലുള്ള ബന്ധവും ഞങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഈ ബന്ധങ്ങളെല്ലാം ചില ലളിതമായ വെക്റ്റർ കാൽക്കുലസ് ഐഡന്റിറ്റികൾക്കൊപ്പം ഉപയോഗിച്ചു അതിനാൽ ഇത് സിഇഎമ്മിന്റെ കഥയായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ അതിർത്തി വ്യവസ്ഥകൾ വെക്റ്റർ കാൽക്കുലസ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാം ശരിയാണെന്ന് കണക്കാക്കാം അതിനാൽ ഇത്തരത്തിലുള്ള ഒരു വ്യുൽപ്പന്നം ആദ്യമായി മനസ്സിലാക്കിയപ്പോൾ ഇത് വളരെ വലിയ കാര്യമായിരുന്നു കാരണം നിങ്ങൾ ഈ സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഞാൻ മുൻ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവ റെസിസ്റ്ററുകൾ കപ്പാസിറ്ററുകൾ ഇൻഡക്ടൻസ് കറന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ലാബിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അങ്ങനെയാണ് ഈ സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു തരംഗ സമവാക്യം പുറത്തുവരാൻ കഴിയും അത് പെട്ടെന്ന് സൂര്യനിൽ നിന്നുള്ള പ്രകാശം എങ്ങനെ ഒരു വൈദ്യുതകാന്തിക തരംഗമായി എത്തുന്നുവെന്ന് വിശദീകരിക്കുന്നു അതിനാൽ വൈദ്യുതകാന്തികവും ഒപ്റ്റിക്സും തമ്മിലുള്ള ഈ ബന്ധം ശരിക്കും സാധ്യമാക്കിയത് മാക്സ്വെൽ ആണ് ഈ പദം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥാനചലന പദം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യം ശരിയായി പ്രവർത്തിക്കില്ലായിരുന്നു സമയവുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ടാമത്തെ ഡെറിവേറ്റീവ് ലഭിക്കില്ലായിരുന്നു ഈ വ്യക്തി ശരിയായിരിക്കില്ല അതിനാൽ എല്ലാം വളരെ മനോഹരമായി ഒത്തുചേരുന്നു മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ വളരെ ലളിതമായി നിങ്ങളിൽ പലരും ഈ തരംഗ സമവാക്യം നേരത്തെ കണ്ടിട്ടുണ്ടാകും അതിനാൽ എല്ലാം ശരിയാണ് മാക്സ്വെല്ലും കമ്പനിയും യഥാർത്ഥ മൂല്യമുള്ള ഭൌതിക അളവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് എഴുതിയത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരാണ് ഞങ്ങൾ ഫേസറുകൾ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഫാസറുകൾ ഇഷ്ടപ്പെടുന്നത് വീണ്ടും ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ ഒരു ലളിതമായ സ്വത്താണ് ഞങ്ങൾക്ക് വേദന ഇഷ്ടമല്ല അതിനാൽ കണക്ക് എളുപ്പമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഫേസറുകൾ ഉപയോഗിക്കുന്നത് ഗണിതശാസ്ത്രപരമായ സങ്കീർണതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്റെ ഭൌതിക അളവ് ഇ എന്ന നിലയിൽ എടുത്ത് ഫേസറിന്റെ അടിസ്ഥാനത്തിൽ എഴുതുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഫേസർ എന്താണ് ഇത് ഒരു സങ്കീർണ്ണ വെക്റ്റർ ആണ് അതിനാൽ ഇത് സങ്കീർണ്ണമാണ് ഞാൻ e യെ j omega t ലേക്ക് ചേർത്തിട്ടുണ്ട് അത് ഫേസറും ഞാൻ ഇതാണ് വ്യക്തമായും ഒരു സങ്കീർണ്ണമായ അളവായിരിക്കും ലബോറട്ടറി ലോകത്ത് യഥാർത്ഥ മൂല്യമുള്ള അളവുകൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനാൽ യഥാർത്ഥ ഭാഗം എടുത്ത് ഞാൻ വിവരിച്ചു അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇത് അവതരിപ്പിക്കുന്നതിലൂടെ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പങ്ക് ഞാൻ വേർതിരിക്കുന്നു ഞാൻ അതിനെ രണ്ട് വ്യത്യസ്ത വേരിയബിളുകളാക്കി മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾMaxwells Equation എനിക്ക് സൌകര്യപ്രദമാണ് കാരണം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ വളരെ രേഖീയമാണ് അതിനാൽ എല്ലാ സമയ ഡെറിവേറ്റീവുകൾക്കും എന്ത് സംഭവിക്കും നിങ്ങൾ എവിടെ കണ്ടാലും അത് പുറത്തുവരും സമയ ഡെറിവേറ്റീവ് ശരിയായില്ല അതിനാൽ ഇവിടെയുള്ള എന്റെ നാല് സമവാക്യങ്ങൾക്ക് സംഭവിക്കുന്നത് അതാണ് അത് മനസ്സിലാക്കിയതിനാൽ ഞാൻ ഇനി തുടർച്ച സമവാക്യം എഴുതുന്നില്ല ഞാൻ കാന്തിക വൈദ്യുതധാരയും കാന്തിക ചാർജും നിലനിർത്തിയിട്ടുണ്ട് അവ ഭൌതിക അളവുകൾ ശരിയല്ല ഗണിതശാസ്ത്രപരമായ സൌകര്യത്തിനായി അവ അവതരിപ്പിക്കും അതിനാൽ ലാബിൽ സാധുതയുള്ള സമവാക്യങ്ങൾ എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ നീല പദങ്ങൾ ശരിയാക്കും വ്യത്യസ്ത വിഷയങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഒരു പുസ്തകമാണ് വായിക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ സാധാരണയായി ഉപയോഗിക്കുന്ന കൺവെൻഷൻ നിങ്ങൾ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒപ്റ്റിക്സ് കമ്മ്യൂണിറ്റിയുടെ ഭൌതികശാസ്ത്രം അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഏത് പുസ്തകം എടുത്താലും തുടക്കത്തിൽ തന്നെ പോയി അവർ ഉപയോഗിച്ച സമയ കൺവെൻഷൻ എന്താണെന്ന് ഉറപ്പാക്കണം രണ്ടും ശരിയാണ് എന്നാൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലായാൽ നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും തെറ്റാകും എല്ലായിടത്തും ശരി എന്ന മൈനസ് ചിഹ്നം കാരണം ലളിതമായ വ്യത്യാസം ശരിയാണ് തീർച്ചയായും ഭൌതികശാസ്ത്രജ്ഞരായ മറ്റൊരു വ്യത്യാസങ്ങൾ അവർ i ഉപയോഗിക്കും j ഉപയോഗിക്കില്ല അത് സാങ്കൽപ്പിക സ്ഥിരാങ്കമായ ah യുടെ മറ്റൊരു കാര്യമാണ് അതിനാൽ അവയാണ് ഫേസർ ബന്ധങ്ങൾ ശരി അതിനാൽ ഞാൻ ഇത് പരിഹരിച്ചുകഴിഞ്ഞാൽ കോഴ്സിനുള്ളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമവാക്യങ്ങളാണ് ഇവ ആരെങ്കിലും ശരി എന്ന് ഞാൻ പറഞ്ഞാൽ ലാബ് അളവ് എനിക്ക് തരൂ ഈ സമവാക്യങ്ങൾ നിങ്ങൾ പരിഹരിച്ചുവെന്ന് കരുതുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇല്ല നിങ്ങൾ ഇത് പരിഹരിച്ചു ഇപ്പോൾ നിങ്ങളുടെ ഇ എച്ച് ഒരു കണക്കുകൂട്ടലിന്റെ ഫലമായി പുറത്തുവന്നു ആരോ പറയുന്നു ലാബിലെ യഥാർത്ഥ അളവ് ലാബിലെ ഫിസിക്കൽ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് തരൂ നിങ്ങൾ എന്ത് ചെയ്യും വിദ്യാർത്ഥി റോ പിന്നെ എം അത് ശരിയാണ് rho m എന്നിവയുടെ ഉപയോഗം ഇല്ലാതായി E H എന്നിവ പരിഹരിക്കാൻ ഞാൻ അവ ഇതിനകം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്തുചെയ്യണം ശരി സാധാരണ തെറ്റ് ശരിയാണെന്ന് അവൾ പറയുന്നു ഇപ്പോൾ അതു പോരാ മറ്റെന്താണ് ചെയ്യേണ്ടത് ഞാൻ വലത് കൊണ്ട് ഗുണിക്കണം നിങ്ങൾ E r ന്റെ യഥാർത്ഥ ഭാഗം എടുത്താൽ നിങ്ങൾക്ക് ഒരു സമയ മാറ്റമില്ലാത്ത അളവ് ലഭിക്കും ഞങ്ങൾക്ക് അത് ആവശ്യമില്ല അതിനാൽ അതിൽ ഉറച്ചുനിൽക്കാൻ ഓർക്കുക അത് നിങ്ങൾക്ക് മുഴുവൻ സമയ ആശ്രിതത്വം നൽകുന്നു അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ ഫേസർ രൂപങ്ങളായിരുന്നു അവ അടുത്തതായി ഉപയോഗിക്കുന്നത് D E B H എന്നിവയും കറന്റും എങ്ങനെ ബന്ധപ്പെടുത്താം എന്നതാണ് അതിനാൽ ഈ ഘടനാപരമായ ബന്ധങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ ഞാൻ ഇവിടെ എഴുതുകയാണ് അതിനാൽ ഡിയും ഇയും തമ്മിലുള്ള ബന്ധം എപ്സിലോൺ പെർമിറ്റിവിറ്റി റൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബിയും എച്ച് തമ്മിലുള്ള ബന്ധം mu പെർമെബിലിറ്റിയുടെ കാര്യത്തിലും ശരിയാണ് ഈ നിയമത്തിന്റെ പേര് എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ വിദ്യാർത്ഥി ഓമിന്റെ നിയമം ഓമിന്റെ നിയമംOhm's Law ശരിയാണ് ഇത് നിങ്ങളുടെ പ്രശസ്തമായ ഓമിന്റെ നിയമം ശരിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഫീൽഡുകൾ മെറ്റീരിയൽ യഥാർത്ഥത്തിൽ ചിത്രത്തിൽ വരുന്നത് എവിടെയാണ് അതിന്റെ ഗ്ലാസോ മരമോ സ്വതന്ത്ര സ്ഥലമോ ആകട്ടെ അതിനാൽ ഈ ആൺകുട്ടികളും ഇവരും ഇവരും ഇവിടെയാണ് ഇടത്തരം പ്രോപ്പർട്ടികൾ ശരിയാക്കുന്നത് ഞാൻ എഴുതിയത് മെറ്റീരിയൽ പ്രോപ്പർട്ടികളുടെ വളരെ ലളിതമായ ഒരു പതിപ്പാണ് വാസ്തവത്തിൽ കർശനമായ അർത്ഥത്തിൽ ഈ സമവാക്യങ്ങൾ ഞാൻ എഴുതിയത് തെറ്റാണ് ഈ കോഴ്സിൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവ ശരിയാക്കും ഉദാഹരണത്തിന് ഇതൊരു ലളിതമായ സ്ഥിരാങ്കമാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇത് ഒരു ഐസോട്രോപിക് മീഡിയയുടെ ടെൻസർ ആയിരിക്കാം ഒപ്റ്റിക്സിലെ ലെൻസുകളിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ദിശയിലേക്ക് വ്യത്യസ്തമായി സഞ്ചരിക്കുന്ന ആ വഴിയുണ്ട് പിന്നെ മറ്റൊരു ദിശയിലും ഐസോട്രോപിക് വസ്തുക്കളും ഈ എപ്സിലോണിനെ ഒരു ടെൻസറോ അല്ലെങ്കിൽ mu ഒരു ടെൻസറോ ആക്കി പിടിച്ചെടുക്കുന്നു ഈ സമവാക്യങ്ങളിൽ കൂടുതൽ സങ്കീർണതകൾ ഉണ്ട് ഈ ഘടനാപരമായ സമവാക്യങ്ങൾ ശരിയാണെന്ന് വരുമ്പോൾ ഞാൻ അവ ചൂണ്ടിക്കാണിക്കാം അതിനാൽ ഞങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ പോകുന്ന പ്രധാന സമവാക്യങ്ങൾ ഇവയാണ്